ഒരു നിശ്ചിത കറന്റിൽ ഒരു ട്രാൻസിസ്റ്ററിനെ ബയസ് ചെയ്യുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉൾക്കൊള്ളുന്നുവെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി കോൺസ്റ്റന്റ് VGS ബയസ് ചെയ്യുന്നത് പോലെ ഇത് ലളിതമല്ല അവിടെ നിങ്ങൾ MOS ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിനും സോഴ്സ് ടെർമിനലുകൾക്കും കുറുകേ VGS എളുപ്പം കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതാണ് MOS ട്രാൻസിസ്റ്ററിനെയും മറ്റ് തരത്തിലുള്ള ട്രാൻസിസ്റ്ററുകളെയും ബയസ് ചെയ്യാനുള്ള മികച്ച മാർഗ്ഗം അതിനാൽ അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് കാണാം ഇപ്പോൾ ഒരു MOS ട്രാൻസിസ്റ്ററിൽ ഡ്രെയിൻ കറന്റ് ID ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് ഒഴുകുന്നു അതിനാൽ ഡ്രെയിൻ ടെർമിനലിലോ സോഴ്സ് ടെർമിനലിലോ നമുക്ക് ഡ്രെയിൻ കറന്റ് എടുക്കാൻ പറ്റും ഗേറ്റ് സോഴ്സ് വോൾട്ടേജാണ് നമുക്ക് നിയന്ത്രിക്കേണ്ടത് നമ്മൾ ടെർമിനലുകളിലൊന്ന് സ്ഥിരമായി നിലനിർത്തുകയും മറ്റ് ടെർമിനലുകളിൽ മാത്രം വ്യത്യാസം വരുത്തുകയുമാണെങ്കിൽ ഇത് വളരെ എളുപ്പമാണ് അതായത് ഗേറ്റോ സോഴ്സോ സ്ഥിരമായ വോൾട്ടേജിൽ നിലനിറത്തുക മറ്റ് ടെർമിനലിൽ വ്യത്യാസമുണ്ടാകുക അതിനാൽ മാറികൊണ്ടിരിക്കുന്ന വോൾട്ടേജ് ഗേറ്റിലോ സോഴ്സിലോ പ്രയോഗിക്കാൻ കഴിയും ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് VGS മാറിമാറി വരുന്നതിനായി ഡ്രെയിൻ കറന്റ് ആക്സസ് ചെയ്യുന്നതിന് രണ്ട് സാധ്യതകളും വോൾട്ടേജ് വ്യത്യാസപ്പെടുന്ന ടെർമിനൽ തിരഞ്ഞെടുക്കുന്നതിന് രണ്ട് സാധ്യതകളും ഉണ്ട് അതിനാൽ മൊത്തത്തിൽ 2 ഗുണനം 2 അങ്ങനെ സാധ്യമാകുന്ന നാല് ബയസ് സർക്യൂട്ടുകൾ ഉണ്ട് അതായത് നമുക്ക് ഡ്രെയിനിലെ കറന്റ് അളക്കാൻ കഴിയും ഡ്രെയിനിലെ കറൻറ് നമ്മൾ താരതമ്യം ചെയ്യും ഗേറ്റ് മാറ്റികൊണ്ടിരിക്കും അങ്ങനെ

അതുപോലെ എനിക്ക് സോഴ്സിൽ അളക്കാനും താരതമ്യപ്പെടുത്താനും സോഴ്സ് വോൾട്ടേജിനെ നിയന്ത്രിക്കാനും കഴിയും മറ്റ് രണ്ട് സാധ്യതകൾ എന്താണെന്നു വെച്ചാൽ നിങ്ങൾ ഡ്രെയിനിൽ അളക്കുകയും സോഴ്സ് വോൾട്ടേജ് നിയന്ത്രിക്കുകയും ചെയ്യുക കൂടാതെ സോഴ്സിൽ അളക്കുകയും ഗേറ്റ് വോൾട്ടേജ് നിയന്ത്രിക്കുകയും ചെയ്യുക നാല് വിധത്തിൽ ഒരു ട്രാൻസിസ്റ്ററിൽ കോൺസ്റ്റന്റ് ഡ്രെയിൻ കറന്റ് ഉണ്ടാക്കാം നമ്മൾ അവയെ ഓരോന്നായി പഠിക്കും അതിനാൽ ആദ്യം ഡ്രെയിനിലെ കറൻറ് താരതമ്യം ചെയ്യുന്ന ആദ്യത്തെ കേസ് നമ്മൾ എടുക്കുന്നു അതായത് ഡ്രെയിൻ ടെർമിനലിലെ കറന്റ് നിരീക്ഷിച്ചുകൊണ്ട് ആവശ്യമുള്ള കറന്റുമായി താരതമ്യം ചെയ്യുക കൂടാതെ ഗേറ്റ് വോൾട്ടേജ് നിയന്ത്രിക്കുക സോഴ്സ് വോൾട്ടേജ് സ്ഥിരമായി തുടരും